ഞങ്ങൾ ഇന്ന് അസൈൻമെന്റ് 4 പരിഹരിക്കും ഇത് ഡീലക്ട്രിക്സിനെയും ചില മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് പ്രശ്നത്തെയും ബാധിക്കുന്നു അതിനാൽ ഇതിലെ ആദ്യത്തെ പ്രശ്നം ഒരു പോയിന്റ് ചാർജ് ചെയ്താൽ ഇത് ഡീലക്ട്രിക്സിനുള്ള ഇമേജ് പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ചോദ്യo നമ്പർ 1 ഒരു പോയിന്റ് ചാർജ് q ഒരു ഡീലക്ട്രിക് സെമി അനന്തമായ സ്ലാബിന് മുന്നിലാണ് അർദ്ധ അനന്തം എന്നതിനർത്ഥം ഈ വശത്ത് മൈനസ് അനന്തതയിലേക്ക് പോകുന്ന എല്ലാ വഴികളുമാണ് അതിനു മുന്നിൽ ഒരു ചാർജ് q ഉണ്ട് ഈ പദാർത്ഥത്തിന്റെ ഡീലക്ട്രിക് സ്ഥിരാങ്കം k ആണ് y z തലം ആയി എടുക്കുക അതിനാൽ ഈ തലം കറുത്ത തലം ഇത് y z തലങ്ങളായി എടുക്കാൻ പോകുന്നു അതിനാൽ ഈ ദിശ x ദിശയാണെന്ന് x 0 ൽ കൂടുതലുള്ള മേഖലയിലെ പോട്ടെൻഷ്യൽ കളും വൈദ്യുത മണ്ഡലവും കണക്കാക്കാൻ അതിനാൽ ഈ പ്രദേശത്തെ പോട്ടെൻഷ്യൽ വൈദ്യുത മണ്ഡലവും കണക്കാക്കണമെങ്കിൽ x 1 ന് ഒരു ഇമേജ് ചാർജ് q 1 മൈനസ് d ന് തുല്യമാണ് അതിനാൽ ഞങ്ങൾ ഒരു ഇമേജ് ചാർജ് q 1 എതിർവശത്ത് d അകലെ സ്ഥാപിക്കുന്നു അതിനാൽ ഇത് ചാർജ് q 1 ആണ് അതിനാൽ പോയിസൺ സമവാക്യം 0 മേഖലയേക്കാൾ വലുതായ x ൽ തൃപ്തികരമാണെന്നും ഈ മേഖലയിലെ മറ്റ് മേഖലയിലെ പോട്ടെൻഷ്യൽ ഫീൽഡും കണക്കാക്കാനും ഞങ്ങൾ ഇവിടെ ചാർജ് q 2 ഇടുന്നു ഈ പ്രദേശത്തെ പോട്ടെൻഷ്യൽ ഫീൽഡും കണക്കാക്കുന്നതിനാണിത് അതിനാൽ അതിർത്തി വ്യവസ്ഥകൾക്കനുസൃതമായി ആവശ്യമുള്ളവ നിറവേറ്റുന്നതിന് താൽപ്പര്യമുള്ള മേഖലയിൽ യാതൊരു നിരക്കും ഈടാക്കുന്നില്ല അതിനാൽ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് ഒരു വൈദ്യുത മാധ്യമമാണ് അതിനാൽ 2 അതിർത്തി വ്യവസ്ഥകളുണ്ട് അതിർത്തി വ്യവസ്ഥകൾ ഡി ലംബമായി തുടരുന്നതും ഇ സമാന്തരമായി തുടരുന്നതുമാണ് കൂടാതെ ഈ 2 അതിർത്തി വ്യവസ്ഥകൾ നിറവേറ്റുന്നതിനുള്ള അറിയിപ്പ് ഞങ്ങൾ 2 പദങ്ങൾ അവതരിപ്പിച്ചു q 1 q 2 അതിനാൽ ഇപ്പോൾ നമ്മൾ ഈ ഡീലക്ട്രിക് എടുക്കുകയാണെങ്കിൽ ഉപരിതലത്തിൽ നിന്ന് d അകലെ ഒരു ചാർജ് q ഉണ്ട് മറുവശത്ത് q 1 ചാർജ് ചെയ്യുക ഈ വശത്ത് ഡീലക്ട്രിക് സ്ഥിരാങ്കം k ഉണ്ട് തുടർന്ന് ഈ 2 ചാർജുകൾ കാരണം വൈദ്യുത മണ്ഡലം ഈ വൈദ്യുത മണ്ഡലം x മേഖലയിൽ 0 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തുല്യമോ ആയിരിക്കും ഇത് സാധുതയുള്ളത് ഈ പ്രദേശത്ത് മാത്രമേ ഫീൽഡ് ഇ ആകാൻ പോകുകയുള്ളൂ q 1 കാരണം q പ്ലസ് ഫീൽഡിലേക്ക് കൂടാതെ ഈ ഇന്റർഫേസിലെ ഫീൽഡിലും ഡിയിലും മാത്രമേ ഞങ്ങൾക്ക് താൽപ്പര്യമുള്ള അതിർത്തി വ്യവസ്ഥകൾ ശ്രദ്ധിക്കുക അതിനാൽ ഞങ്ങൾ ഇത് ഇവിടെ കണക്കാക്കുന്നു ഞങ്ങൾ y z അകലത്തിൽ കണക്കാക്കും x എന്തായാലും ഈ ഘട്ടത്തിൽ 0 ആണ് അതിനാൽ ഇവിടെ q കാരണം വൈദ്യുത മണ്ഡലം 1 ഓവർ 4 pi എപ്സിലോൺ 0 q ആയിരിക്കും നമ്മൾ പോയിന്റ് y j പ്ലസ് z k നോക്കുന്നു q കാരണം x അക്ഷത്തിൽ D ന് x ആണ് അതിനാൽ ഇത് D i യെ y സ്ക്വയർ പ്ലസ് z സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ 3 ബൈ 2 ആയി വിഭജിക്കും ചാർജ് q 1 കാരണം ചാർജ് ചെയ്യേണ്ട ഫീൽഡ് q 1 ഫീൽഡ് q 1 തവണ y j പ്ലസ് z k പ്ലസ് d i ആയിരിക്കും കാരണം ഇത് മൈനസ് d യിൽ ആയിരിക്കും y സ്ക്വയർ z സ്ക്വയർ പ്ലസ് D സ്ക്വയർ 3 ബൈ 2 കൊണ്ട് വിഭജിക്കും അതാണ് x എന്ന മേഖലയിലെ ഫീൽഡ് 0 എന്നതിനേക്കാൾ വലുത് E 14π0 q yjzk diy2z2d232 14π0 q1 yjzkdiy2z2d232 for x≥0 മേഖല x നെ സംബന്ധിച്ചിടത്തോളം 0 ൽ കുറവോ തുല്യമോ ആണെങ്കിൽ ചാർജ് വലത് വശത്ത് q 2 ചാർജ് ഉള്ളതുപോലെ ഞങ്ങൾ കണക്കാക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ x 0 ൽ താഴെയുള്ള പ്രദേശങ്ങൾക്കുള്ള ഫീൽഡ് അതിനാൽ ഈ ഭാഗത്ത് പക്ഷേ ഇപ്പോഴും ഉപരിതലത്തിൽ 1 ഓവർ 4 പൈ എപ്സിലോൺ 0 q 2 yj പ്ലസ് zk മൈനസ് ഡി y സ്ക്വയർ പ്ലസ് z സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ റൈസ് ടു 3 ബൈ 2 കൊണ്ട് ഹരിക്കുന്നു ഇത് x ന് 0 ൽ കുറവോ തുല്യമോ ആയ പ്രദേശങ്ങൾക്ക് സാധുതയുള്ള ഫീൽഡാണ് E 14π0 q2 yjzk diy2z2d232 for x≤0 ഇപ്പോൾ ഞങ്ങൾ അതിർത്തി വ്യവസ്ഥകൾ പ്രയോഗിക്കേണ്ടതുണ്ട് അതിർത്തി വ്യവസ്ഥകൾ എന്നോട് പറയുന്നത് ഡി ലംബമാണ് അതിനാൽ ഈ ഉപരിതലത്തിനായുള്ള ഡി ലംബമായി x ദിശയിൽ 0 നേക്കാൾ കുറവായിരിക്കും D എന്നത് k തവണ E x ആണ് ഇത് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 q 2 മടങ്ങ് മൈനസ് ഡി ഓവർ ആ ദൂരത്തിന് സ്ക്വയർ y സ്ക്വയർ പ്ലസ് z സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ റൈസ് ടു 3 ബൈ 2 മടങ്ങ് k വരെ x ൽ നിന്ന് 0 ലധികം വലുതോ തുല്യമോ ആയ ലംബമായ E x തുല്യമായിരിക്കണം 1 ഓവർ 4 പൈ എപ്സിലോൺ 0 ന് ഇത് ബ്രാക്കറ്റുകളിൽ മൈനസ് q d പ്ലസ് q 1 d 1 ഓവർ ആ ദൂരത്തിന് തുല്യമായ y സ്ക്വയർ പ്ലസ് z സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ റൈസ് ടു 3 ബൈ 2 ഈ 2 തുല്യമായിരിക്കണം ഞാൻ അവയെ തുല്യമാക്കിയാൽ ചില നിബന്ധനകൾ 1 ഓവർ 4 പൈ എപ്സിലോൺ 0 റദ്ദാക്കുന്നു അതിനാൽ d യും For x≤0 DkEx k4π0 q2 y2z2d232 For x≥0 DEx 14π0 qdq1d 1y2z2d232 അതിനാൽ ആ ദൂരo ഞങ്ങൾക്ക് അവശേഷിക്കുന്നു ഞാൻ 2 വശങ്ങളിൽ ഡി ലംബമായി മാറ്റുകയാണെങ്കിൽ എനിക്ക് മൈനസ് k q 2 എന്നത് മൈനസ് q പ്ലസ് q 1 ന് തുല്യമാണ് അത് എന്റെ സമവാക്യം 1 ആണ് kq2 qq1 q2qq1 equ 2 equ 1 ⟹q2k12q q22k1q q1q2 q2k1 1q 1 kk1q k 1k1q മറ്റൊരു സമവാക്യം E സമാന്തരവും തുല്യമാണ് അത് എനിക്ക് q പ്ലസ് q 1 നൽകുന്നത് q 2 ന് തുല്യമാണ് ഇതാണ് എന്റെ സമവാക്യം 2 ഇപ്പോൾ നമ്പർ 2 ൽ നിന്ന് നമ്പർ 1 കുറച്ചാൽ നമുക്ക് ഈ 2 സമവാക്യങ്ങളും വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും ഇത് എനിക്ക് q 2 k പ്ലസ് 1 2 q ന് തുല്യമാണ് അല്ലെങ്കിൽ q 2 2 ഓവർ k പ്ലസ് 1 q ന് തുല്യമാണ് ഇതിൽ നിന്ന് എനിക്ക് q 1 കണക്കാക്കാം അത് q 2 മൈനസ് q ന് തുല്യമാണ് അത് 2 ഓവർ k പ്ലസ് 1 മൈനസ് 1 q ആണ് ഇത് 1 മൈനസ് k ഓവർ കെ പ്ലസ് 1 ക്യു അല്ലെങ്കിൽ മൈനസ് കെ മൈനസ് 1 ഓവർ കെ പ്ലസ് 1 q ന് തുല്യമാണെങ്കിൽ q 1 ന് തുല്യമാണെങ്കിൽ ശ്രദ്ധിക്കുക അതിനർത്ഥം ഡീലക്ട്രിക് മീഡിയം ഇല്ലെങ്കിൽ q 2 q ഉം q 1 0 ഉം ആയിത്തീരുന്നു വൈദ്യുത മണ്ഡലത്തിന്റെ കാര്യമോ ഇപ്പോൾ എനിക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ q ആണ് അതിനാൽ x ന് 0 ൽ കുറവോ തുല്യമോ ആയ മേഖലയിലെ ഇലക്ട്രിക് ഫീൽഡ് q ഉള്ള അതേ സ്ഥാനത്ത് ചാർജ് ഇരിക്കുന്നതുപോലെയാകും പക്ഷേ ഇത് k പ്ലസ് 1 നെക്കാൾ 2 കുറവാണ് അതിനാൽ ഫീൽഡ് ലൈനുകൾ q ന്റെ സ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്ന നേർരേഖകൾ പോലെ കാണപ്പെടും ഫീൽഡ് ലൈനുകൾ എങ്ങനെയാണ് x എന്നതിനേക്കാൾ x എന്നതിനേക്കാൾ 0 ൽ താഴെയുള്ള മേഖലയിൽ ഫീൽഡ് ലൈനുകൾ കാണാൻ പോകുന്നത് അതാണ് ഈ പ്രദേശം ചാർജ് ഇവിടെ ഒരു q ഇരിക്കുന്നതുപോലെയാണ് കൂടാതെ ഇവിടെ ഒരു മൈനസ് q ഇരിക്കുന്നു മൈനസ് അല്ലെങ്കിൽ q 1 ഇത് മൈനസ് കെ മൈനസ് 1 ഓവർ കെ പ്ലസ് 1 ക്യുവിന് തുല്യമാണ് k 1 ന് അടുത്താണെങ്കിൽ അത് വളരെ ചെറിയ ചാർജാണ് പക്ഷേ അത് നൽകാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ചെറിയ വക്രതയാണ് അതിനാൽ ഈ വശത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഇതുപോലെ കാണപ്പെടും കാരണം അവ തിരിയാൻ പോകുന്നു നെഗറ്റീവ് ചാർജ് ചാർജ് ചെയ്യുന്നതിന് അതിനാൽ പ്രശ്നം 1 ലെ ഫീൽഡ് ലൈനുകൾ ഇങ്ങനെയാണ് അടുത്തതായി ഞങ്ങൾ പ്രശ്നം 2 പരിഹരിക്കുന്നു അത് ഖരമായ അനന്തമായ നീളമുള്ള സിലിണ്ടറിന് z അക്ഷത്തിൽ അച്ചുതണ്ട് ഉണ്ടെന്ന് പറയുന്നു അതിനാൽ z അക്ഷത്തിൽ അക്ഷമുണ്ടെങ്കിൽ അത് x ദിശയിൽ p എന്നതിന് തുല്യമായ ഒരു ധ്രുവീകരണ p വഹിക്കുന്നുവെങ്കിൽ ഇവിടെ ഒരു ഖരമായ അനന്ത നീളമുള്ള സിലിണ്ടർ ഉണ്ട് കൂടാതെ ഡീലക്ട്രിക്കുള്ളിലെ സ്ഥാനചലന വെക്റ്റർ നിർവചനം അനുസരിച്ച് സ്ഥാനചലന വെക്റ്ററാണ് എപ്സിലോൺ 0 ഇ പ്ലസ് പി ഇവിടെ E ആണ് വൈദ്യുത മണ്ഡലം ഈ ധ്രുവീകരണം മൂലം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഞങ്ങൾ ഇതിനകം പലതവണ കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ മൈനസ് പി ഓവർ 2 എപ്സിലോൺ 0 നൽകിയിട്ടുണ്ട് അതിനാൽ ഡിയുടെ ഉത്തരം മൈനസ് പി ഓവർ 2 പ്ലസ് പി ആകും ഇത് പി 2 ന് തുല്യമാണ് അതായത് ഞങ്ങളുടെ ഉത്തരം p 0 ഓവർ 2 x ന് തുല്യമാണ് PP0x D 0E PE P20D P2P P2 P2 x അടുത്ത പ്രശ്ന നമ്പർ 3 ഒരു സമാന്തര പ്ലേറ്റ് കപ്പാസിറ്റർ z അക്ഷത്തിന് ലംബമായി സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ ഇവ വലിയ പ്ലേറ്റുകളാണ് അതിനാൽ നമുക്ക് ഫ്രിഞ്ച് ഇഫക്റ്റുകൾ അവഗണിക്കാം അത് ഒരു വശത്ത് ഡൈലെക്ട്രിക് സ്ഥിരാങ്കം k 1 ഉള്ള 2 ഡീലക്ട്രിക് സ്ലാബുകളും മറുവശത്ത് ഡീലക്ട്രിക് സ്ഥിരാങ്കം k 2 ഉം വഹിക്കുന്നു ഡീലക്ട്രിക് ഇന്റർഫേസിലെ അതിർത്തി വ്യവസ്ഥകൾ എന്താണെന്ന് ഫ്രിഞ്ച് ഇഫക്റ്റുകൾ അവഗണിക്കുന്നു ഞങ്ങൾ ഫ്രിഞ്ച് ഇഫക്റ്റുകൾ അവഗണിക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ ചാർജ്ജ് ആയിരിക്കുമ്പോൾ വൈദ്യുത മണ്ഡലം പ്ലേറ്റുകൾക്ക് ലംബമായിരിക്കും അതിനാൽ അതിർത്തി വ്യവസ്ഥ വശo 1 ൽ E z വശo 2 ൽ E z ആയിരിക്കും അതാണ് അതിർത്തി വ്യവസ്ഥ Ez1Ez2 നമുക്ക് ഇപ്പോൾ ചോദ്യം നമ്പർ 4 പരിഹരിക്കാം ഒരു ഗോളത്തിൽ ഒരു ധ്രുവീകരണം p തുല്യമാണ് p നോട്ട് z അതിനാൽ ഇവിടെ ഗോളമുണ്ട് അത് ഒരു ധ്രുവീകരണം p തുല്യമാണ് p നോട്ട് z ന് ഈ മധ്യരേഖയ്ക്ക് തൊട്ട് പുറത്തേക്ക് z ന് ലംബമായി തലത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അതിനാൽ അതിന്റെ മധ്യരേഖയ്ക്ക് തൊട്ടപ്പുറത്തുള്ള വൈദ്യുത മണ്ഡലം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ചുവപ്പ് കാണിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ വൈദ്യുത മണ്ഡലം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് ഇത് വ്യക്തമായി കണക്കാക്കാം അല്ലെങ്കിൽ അതിർത്തി വ്യവസ്ഥകൾ ഉപയോഗിക്കാം ഈ ഗോളത്തിന് ഉള്ളിലെ വൈദ്യുത മണ്ഡലം വിപരീത ദിശയിലാണെന്ന് എനിക്കറിയാം അതിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് E മൈനസ് പി ഓവർ 3 എപ്സിലോൺ 0 ന് തുല്യമാണ് ഈ സാഹചര്യത്തിൽ മൈനസ് പി 0 ഓവർ 3 എപ്സിലോൺ 0 z ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ അതിർത്തിക്കപ്പുറത്ത് തുടരും കാരണം ഈ ഘട്ടത്തിൽ മധ്യരേഖയിൽ ഇതാണ് ടാൻജൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് അതിനാൽ E ഔട്ട്സൈഡ് E ഇൻസൈഡ് തുല്യമായിരിക്കും ഇത് E പാരലൽ ൽ നിന്ന് തുടർച്ചയായി വരുന്നു ഇത് E ഔട്ട്സൈഡ് മൈനസ് p ഓവർ 3 എപ്സിലോൺ 0 z ന് തുല്യമാകുമെന്ന് ഇത് ഉടൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നു വ്യക്തമായ കണക്കുകൂട്ടലിലൂടെ നമുക്ക് ഈ ഉത്തരം നേടാം E P30 P030 zEoutside EinsideEoutside P030 z വ്യക്തമായ കണക്കുകൂട്ടലിൽ ഈ ഗോളത്തിന്റെ മധ്യഭാഗത്ത് ഒരു ദ്വിധ്രുവ പി കാരണം തുല്യമാണ് 4 പൈ ബൈ 3 ആർ ക്യൂബ്ഡ് പി അതിനാൽ ഫീൽഡിന് പുറത്ത് പോയിന്റ് ഡിപോൾ പി കേന്ദ്രത്തിൽ ഇരിക്കുന്നതുപോലെ ആയിരിക്കും ഇത് കാരണം എനിക്ക് അറിയാവുന്ന 1 ഓവർ 4 പൈ എപ്സിലോൺ 0 3 പി ഡോട്ട് ആർ ആർ യൂണിറ്റ് വെക്റ്റർ മൈനസ് പി r ക്യൂബ് കൊണ്ട് ഹരിക്കുന്നു ഈ സാഹചര്യത്തിൽ r യൂണിറ്റ് വെക്റ്റർ z ന് ലംബമായ ദിശയിലാണ് അതിനാൽ p dot r ടേം 0 ആണ് അതിനാൽ വൈദ്യുത മണ്ഡലം 1 ഓവർ 4 പൈ എപ്സിലോൺ 0 r മൂല്യം r ക്യൂബ് തവണ മൈനസ് 4 പൈ ബൈ 3 r ക്യൂബ് p അത് ഒരു ധ്രുവീകരണമാണ് R ക്യൂബ് റദ്ദാക്കാം 4 പൈ നിബന്ധനകൾ റദ്ദാക്കാം കൂടാതെ പി ഓവർ 3 എപ്സിലോൺ 0 അവശേഷിക്കുന്നു തീർച്ചയായും അതിർത്തി വ്യവസ്ഥ ഉപയോഗിച്ച് ഞങ്ങൾ നേടിയ ഉത്തരം rr Pr3 14π0 r3× 4π3R3P P30 സ്ലൈഡ് സമയം കാണുക 1500 അടുത്ത പ്രശ്നത്തിൽ ആർ ആരം R ന്റെ ഒരു ഡീലക്ട്രിക് ഗോളത്തിന്റെ കേന്ദ്രത്തിൽ ഒരു പോയിൻറ് ചാർജ് q സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് നമ്മോട് ചോദിക്കുന്നു അതിനാൽ ഇത് ഡീലക്ട്രിക് സ്ഥിരാങ്കം k ന്റെ ഒരു ഡീലക്ട്രിക് ഗോളമാണ് കൂടാതെ അതിന്റെ കേന്ദ്രത്തിൽ നമുക്ക് ഒരു ചാർജ് q ഉണ്ട് എന്താണ് പോട്ടെൻഷ്യൽ പോട്ടെൻഷ്യൽ കണക്കാക്കാൻ ഞാൻ ആദ്യം വൈദ്യുത മണ്ഡലം E കണക്കാക്കും നമ്മൾ ഗാസ് നിയമപ്രകാരം ഡൈലെക്ട്രിക്സിന്റെ സാന്നിധ്യത്തിൽ പോകാൻ പോകുന്നു ഇത് ഡെൽ ഡോട്ട് ഡി റോ ഫ്രീ ക്ക് തുല്യമാണ് ഈ സാഹചര്യത്തിൽ റോ ഫ്രീ ഉണ്ടാകുന്നത് ഈ പോയിൻറ് ചാർജിൽ നിന്നുമാത്രമാണ് അതിനാൽ ഡി ഡിവി യുടെ വ്യതിചലനത്തിന്റെ അളവ് ഇന്റഗ്രൽ റോ ഫ്രീ വിവി ആയി ഞാൻ ചെയ്യുന്നുവെങ്കിൽ ഇത് വ്യതിചലന പ്രമേയം ഇന്റഗ്രൽ ഡി ഡോട്ട് ഡിഎസാണ് ഇത് റോ വി ഡിവിക്ക് തുല്യമാണ് ഇത് മൊത്തം ചാർജ് ക്യു ആണ് ഇത് എനിക്ക് തരുന്നു സമമിതി പ്രകാരം ഒരു ഗോളീയ സമമിതി D റേഡിയൽ മാത്രമായിരിക്കും അതിനാൽ ഡി എല്ലാം റേഡിയൽ ആണ് അതിനാൽ ഈ ഡി ഡോട്ട് ഡിഎസാണ് എനിക്ക് D തവണ നൽകുന്നു 4 pi r സ്ക്വയർ Q ന് തുല്യമാണ് അല്ലെങ്കിൽ D മാഗ്നിറ്റ്യൂഡ് q 4 pi r സ്ക്വയറിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ വെക്റ്റർ എടുക്കുകയാണെങ്കിൽ അത് റേഡിയൽ ദിശയിലാകും അതാണ് എന്റെ ഡി D dv free dvD 4πr2QD Q4πr2 r ഇതിൽ നിന്ന് ഇവിടെയുള്ള വൈദ്യുത മണ്ഡലം കണക്കാക്കാം എന്റെ ഗോളമാണ് കൂടാതെ R ഇതിനകം 4 pi r സ്ക്വാർ r R ന് തുല്യമോ കുറവോ ആണെങ്കിൽ D എന്നത് k തവണ E ന് തുല്യമാണ് അതിനാൽ വൈദ്യുത മണ്ഡലം E Q ആകാൻ പോകുന്നു എപ്സിലോൺ 0 ഓവർ 4 pi എപ്സിലോൺ 0 r സ്ക്വാർ 1 ഓവർ k റേഡിയൽ ദിശയിൽ ഉണ്ട് r R നെക്കാൾ വലുത് D മറ്റൊന്നുമല്ല എപ്സിലോൺ 0 E വെക്റ്റർ ചിഹ്നം പോലും മികച്ചതാണ് അതിനാൽ E റേഡിയൽ ദിശയിൽ q ഓവർ 4 pi എപ്സിലോൺ 0 r സ്ക്വാർ E അതിർത്തിയിലുടനീളം നിരന്തരമാണെന്ന് ശ്രദ്ധിക്കുക അതിനാൽ നമുക്ക് R ഉപയോഗിച്ച് E r പ്ലോട്ട് ചെയ്യേണ്ടിവന്നാൽ ഇവിടെ r തുല്യമാണ് r ഡീലക്ട്രിക് ഇല്ലായിരുന്നുവെങ്കിൽ ഫീൽഡ് ഇതുപോലെ പോകുമായിരുന്നു എന്നിരുന്നാലും ഡീലക്ട്രിക് കാരണം ആന്തരിക ഭാഗം k ന്റെ ഒരു ഘടകത്താൽ കുറയുന്നു അതിനാൽ ഇത് k ന്റെ ഒരു ഘടകത്താൽ കുറയുന്നു ഇങ്ങനെയാണ് വൈദ്യുത മണ്ഡലം പോകുന്നത് നിർത്തലാക്കുന്നത് ഉപരിതല ചാർജ് ആണ് r≤R Dk0EE 1kQ4π0 r2r rR D 0E E 1kQ4π0 r2r സ്ലൈഡ് സമയം കാണുക 1825 ഇപ്പോൾ പോട്ടെൻഷ്യൽ കണക്കാക്കാൻ മൈനസ് ചിഹ്നമുള്ള v യുടെ ഗ്രേഡ് E ന് തുല്യമാണെന്ന് എനിക്കറിയാം അതിനാൽ R നെക്കാൾ വലുതായതിന് എനിക്ക് മൈനസ് ഡിവി ബൈ d r q ഓവർ 4 pi എപ്സിലോൺ 0 r സ്ക്വാർ ന് തുല്യമാണ് ഒപ്പം v എടുക്കുമ്പോൾ അനന്തതയിൽ 0 ആയിരിക്കണം ഇത് നിങ്ങൾ പലതവണ സമന്വയിപ്പിക്കാൻ എളുപ്പമാണ് പോയിന്റ് ചാർജുകൾക്കായി v പലതവണ q ഓവർ 4 pi എപ്സിലോൺ 0 rr R ന് തുല്യമോ കുറവോ ആണെങ്കിൽ നമുക്ക് വീണ്ടും മൈനസ് ഡിവി ക്യാപിറ്റൽ ആർ ലേക്ക് സമന്വയിപ്പിക്കുകയാണെങ്കിൽ മൈനസ് q ഓവർ 4 pi എപ്സിലോൺ 0 k ഇന്റഗ്രൽ D r ഓവർ r സ്ക്വാർ r മുതൽ ക്യാപിറ്റൽ R വരെ എന്നത് തുല്യമാണ് v മൈനസ് r ഉം v r ഉം തുല്യമാണ് V ErR ∂V∂r Q4π0 r2 V0 V Q4π0 r r≤R ∂V∂rE Q4π0k r2 rRdV Q4π0krRdrr2 VR Vr Q4π0k 1rrR Q4π0k1R 1r VrVR Q4π0kRQ4π0kr Q4π0R Q4π0kRQ4π0kr Q4π0 1kr1R 1kR Q4π01krk 1kR അതിനാൽ എനിക്ക് ലഭിക്കുന്നു v r R മൈനസ് ന് v ലഭിക്കുന്നു r ന് തുല്യമോ കുറവോ q ഓവർ 4 pi എപ്സിലോൺ 0 k r പ്ലസ് q ഓവർ 4 pi എപ്സിലോൺ 0 k r ഇത് എളുപ്പത്തിൽ കണക്കാക്കാം കാരണം അനന്തതയുമായി ബന്ധപ്പെട്ട് v ന്റെ r എന്നത് Q ഓവർ 4 pi എപ്സിലോൺ 0 r മൈനസ് Q ഓവർ 4 pi എപ്സിലോൺ 0 kr പ്ലസ് q ഓവർ 4 pi എപ്സിലോൺ 0 kr ന് തുല്യമാണെന്ന് എനിക്കറിയാം q ഓവർ 4 പൈ എപ്സിലോൺ 0 പുറത്തെടുക്കാൻ കഴിയും എനിക്ക് 1 ഓവർ kr പ്ലസ് 1 ഓവർ ആർ മൈനസ് 1 ഓവർ കെ ആർ ഉണ്ട് അതാണ് നിങ്ങളുടെ ഉത്തരം നമുക്ക് അതിനെ കൂടുതൽ ലളിതമാക്കാം q ഓവർ 4 pi എപ്സിലോൺ 0 k r പ്ലസ് k മൈനസ് 1 ഓവർ k R ചെറിയ r ക്യാപിറ്റൽ R ന് തുല്യമാണെങ്കിൽ ഈ പദം റദ്ദാക്കുകയും നിങ്ങൾക്ക് 1 ഓവർ r ലഭിക്കുകയും ചെയ്യും അത് ശരിയായിരിക്കണം ഞാൻ നിങ്ങൾക്ക് നൽകിയ പ്രശ്നത്തിൽ ഈ അടയാളം തെറ്റായി നൽകിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഇപ്പോൾ അത് ശരിയാക്കുക